ഹലോ ഈ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം Physically unclonable functions ന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും authentication നും മറ്റ് സുരക്ഷാ വശങ്ങൾക്കും അവ എങ്ങനെ ഉപയോഗിക്കാമെന്നതിനെക്കുറിച്ചും ഞങ്ങൾ സംസാരിച്ച അവസാനത്തെ ക്ലാസ്സിൽ നിന്നും ഈ വീഡിയോ തുടരുന്നു IOT ൽ ഉപയോഗിക്കുന്ന പ്രത്യേകിച്ചും എഡ്ജ് ഉപകരണങ്ങൾ പോലുള്ള lightweight ഉപകരണങ്ങൾക്ക് അവ പ്രധാനമാണ് വളരെ സാധാരണമായി ഉപയോഗിക്കുന്ന 2 തരം പിയുഎഫുകളുണ്ടെന്നും നമ്മൾ പരാമർശിച്ചു ഒന്ന് ആർബിറ്റർ പിയുഎഫ് മറ്റൊന്ന് റിംഗ് ഓസിലേറ്റർ പിയുഎഫ് നമ്മൾ നിർത്തിയ സ്ഥലത്ത് നിന്ന് ഈ ക്ലാസ്സ് തുടരും റിംഗ് ഓസിലേറ്റർ ആർബിറ്റർ PUF എന്നിവയെക്കുറിച്ച് നമ്മൾ കൂടുതൽ വിശദമായി നോക്കും അവ താരതമ്യം ചെയ്യും തുടർന്ന് authentication പദ്ധതികൾ എങ്ങനെ നിർമ്മിക്കാമെന്നും പി എഫുകളുടെ നിലവിലെ പോരായ്മകൾ എന്താണെന്നും അവ എത്രത്തോളം ലഘൂകരിക്കാമെന്നും നമ്മൾ കാണും നമ്മൾ യഥാർത്ഥത്തിൽ റിംഗ് ഓസിലേറ്റർ PUF നെക്കുറിച്ചു കണ്ടു ഇത് ഇതുപോലെയായിരുന്നു ഇവിടെ റിംഗ് ഓസിലേറ്ററുകളുടെ ഒരു പരമ്പര ഉണ്ടായിരുന്നു ഇവിടെ N ഓസിലേറ്ററുകളുണ്ടായിരുന്നു ഓരോ റിംഗ് ഓസിലേറ്ററിനും കുറഞ്ഞത് 3 ഇൻവെർട്ടർ ഗേറ്റുകളെങ്കിലും ഉണ്ട് മൂന്നാമത്തേതിന്റെ ഔട്ട്പുട്ട് യഥാർത്ഥത്തിൽ പിന്നിലേക്ക് ലൂപ്പുചെയ്ത് ഒന്നാമത്തെ ഇൻവെർട്ടറുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു തുടർന്ന് ഈ റിംഗ് ഓസിലേറ്റർ ഔട്ട്പുട്ടുകളെല്ലാം മൾട്ടിപ്ലക്സറുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇത് രണ്ട് N ബൈ 2 ബിറ്റ് മൾട്ടിപ്ലക്സറുകളായി കാണിച്ചിരിക്കുന്നു പക്ഷേ നമുക്ക് അവയെ യഥാർത്ഥത്തിൽ എൻ ബിറ്റ് മൾട്ടിപ്ലക്സറുകളായി കാണാനാകും നിങ്ങൾക്ക് 1 ബിറ്റുള്ള കൌണ്ടറുകളും പ്രതികരണവും ഉണ്ട് ഒരു റിംഗ് ഓസിലേറ്റർ PUF ഇതുപോലെയാണ് റിംഗ് ഓസിലേറ്റർ PUF യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നതിന് user ന് ഒരു Enable സിഗ്നൽ നൽകേണ്ടതുണ്ട് Enable 0 ൽ നിന്ന് 1 ലേക്ക് മാറ്റണം കൂടാതെ challenge വ്യക്തമാക്കുകയും വേണം ഇവിടെ N ഓസിലേറ്ററുകളിൽ നിന്ന് 2 റിംഗ് ഓസിലേറ്ററുകൾ തിരഞ്ഞെടുക്കുക എന്നതാണ് ഒരു വെല്ലുവിളി ഉദാഹരണത്തിന് ചർച്ചയ്ക്ക് വേണ്ടി രണ്ട് ഓസിലേറ്ററുകൾ എടുക്കുന്നുവെന്ന് കരുതുക റിംഗ് ഓസിലേറ്റർ 2 ഉം റിംഗ് ഓസിലേറ്റർ N ഉം ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ Enable സിഗ്നൽ 1 ആകുമ്പോൾ PUF ന്റെ പ്രാരംഭ അവസ്ഥ അത് തിരികെ നൽകുന്നു അതിന്റെ ഫലമായി PUF ന്റെ ഔട്ട്പുട്ടിൽ ഒരു ചതുര തരംഗരൂപം ദൃശ്യമാകും മുമ്പത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തതുപോലെ ഈ തരംഗരൂപത്തിന്റെ ആവൃത്തി പി എഫിന്റെ നിർമ്മാണ പ്രക്രിയയുടെ ഫലമാണ് ഉദാഹരണത്തിന് ഇതിൽ കപ്പാസിറ്റൻസ് ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നമ്മൾ കണ്ടു റിംഗ് ഓസിലേറ്റർ പിയുഎഫിന്റെ ആവൃത്തിയെ മാറ്റാൻ കഴിയുന്ന ഒരു ത്രെഷോൾഡ് വോൾട്ടേജും മറ്റ് നാനോസ്കെയിൽ വശങ്ങളും ഉണ്ട് ഈ N റിംഗ് ഓസിലേറ്ററുകൾ ഓരോന്നും വ്യത്യസ്തമായ ഒരു ആവൃത്തി സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരു challenge യഥാർത്ഥത്തിൽ 2 റിംഗ് ഓസിലേറ്ററുകളെ ക്രമരഹിതമായി തിരഞ്ഞെടുക്കും നമ്മൾ റിംഗ് ഓസിലേറ്റർ 2 N എന്നിവ ചർച്ച ചെയ്തിരുന്നു ഈ ആന്തരിക സവിശേഷതകൾ കാരണം റിംഗ് ഓസിലേറ്ററുകൾ 2 ഉം N ഉം സൃഷ്ടിക്കുന്ന തരംഗരൂപത്തിന്റെ ആവൃത്തി വ്യത്യസ്തമായിരിക്കും ഇപ്പോൾ ഇവിടെ റിംഗ് ഓസിലേറ്റർ 2 ഉം N ഉം ഒരു മൾട്ടിപ്ലക്സർ ഉപയോഗിച്ചു മൾട്ടിപ്ലക്ക്സ് ചെയ്തിരിക്കുന്നു നമുക്ക് കിട്ടുന്നRA യും RB യും രണ്ടും ചതുര തരംഗങ്ങളാണ് ഒന്ന് RA ആണ് ഇതിന് കാരണം ഈ റിംഗ് ഓസിലേറ്റർ 2 ആണ് രണ്ടാമത്തെ റിംഗ് ഓസിലേറ്റർ അതിന്റെ ഔട്ട്പുട്ടിലേക്ക് സ്വിച്ച് ചെയ്തത് Nth റിംഗ് ഓസിലേറ്റർ ആണ് ഇത് RBക്കു കാരണമായി നമ്മൾക്കു രണ്ട് കൌണ്ടറുകൾ ഉണ്ട് രണ്ട് കൌണ്ടറുകളും 0 ൽ ആരംഭിക്കുന്നു റിംഗ് ഓസിലേറ്ററിൽ നിന്ന് ലഭിക്കുന്ന ഓരോ periodic അല്ലെങ്കിൽ ഓരോ പോസിറ്റീവ് പൾസും എണ്ണാൻ ആരംഭിക്കുന്നു നമുക്കറിയാവുന്നതുപോലെ 2 റിംഗ് ഓസിലേറ്ററുകൾ അവയുടെ ആന്തരിക സവിശേഷതകൾ കാരണം വ്യത്യസ്ത ആവൃത്തികളിൽ പ്രവർത്തിക്കുന്നതിനാൽ ഈ 2 കൌണ്ടറുകൾ 1 അല്ലെങ്കിൽ 2 സെക്കൻഡിനു ശേഷം വ്യത്യസ്തമായ കൌണ്ട് വാല്യൂ നേടും ഇതിനെ അടിസ്ഥാനമാക്കി 1 അല്ലെങ്കിൽ 2 സെക്കൻഡിനുശേഷം ഒരു താരതമ്യം നടത്തുകയും ഈ 2 കൌണ്ടറുകളിൽ ഏതാണ് ഉയർന്നതെന്ന് നിർണ്ണയിക്കുകയും അതിനനുസരിച്ച് 1 അല്ലെങ്കിൽ 0 ഔട്ട്പുട്ട് നൽകുകയും ചെയ്യും ചലഞ്ചിന്റെ പ്രതികരണം 1 അല്ലെങ്കിൽ 0 ആണ് ഞങ്ങളുടെ ഉദാഹരണത്തിൽ ഈ കൌണ്ടറുമായി ബന്ധപ്പെട്ട ഫ്രീക്വൻസി fA യ്ക്ക് ഉയർന്ന മൂല്യമുണ്ടെങ്കിൽ ഔട്ട്പുട്ട് 1 നൽകുന്നു അല്ലാത്തപക്ഷം ഔട്ട്പുട്ട് 0 നൽകുന്നു ഹാർഡ്വെയർ ഉപകരണം ഈ റിംഗ് ഓസിലേറ്റർ PUF നടപ്പിലാക്കുമെന്നതാണ് നമ്മൾ ഇവിടെ കാണുന്നത് പിന്നീട് വിന്യസിക്കുമ്പോൾ ഒരു അപ്ലിക്കേഷന് ഈ റിംഗ് PUF പ്രവർത്തനക്ഷമമാക്കാനും ഒരു ചാലഞ്ച് തിരഞ്ഞെടുക്കാനും അടിസ്ഥാനപരമായി ഈ റിംഗ് ഓസിലേറ്ററുകളിൽ ഒരു ജോഡി തിരഞ്ഞെടുക്കാനും ഔട്ട്പുട്ട് 1 അല്ലെങ്കിൽ 0 നൽകാനും കഴിയും ഇപ്പോൾ ഈ റിംഗ് ഓസിലേറ്റർ പിയുഎഫിന്റെ മുഴുവൻ ഉദ്ദേശ്യവും അല്ലെങ്കിൽ മുമ്പത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ഈ റിംഗ് ഓസിലേറ്റർ പിയുഎഫിന്റെ മുഴുവൻ സവിശേഷതയും ഈ ഔട്ട്പുട്ട് പ്രതികരണം ആ പ്രത്യേക ഉപകരണത്തിന്റെ function ആയിരിക്കും എന്നതാണ് എനിക്ക് സമാനമായ രണ്ട് ഉപകരണങ്ങളുണ്ടെങ്കിൽ ഈ ഉപകരണങ്ങളിൽ ഓരോന്നിനും റിംഗ് ഓസിലേറ്റർ PUF ഉണ്ടെങ്കിൽ ഓരോന്നും ഒരു പ്രത്യേക ചാലഞ്ച് നായി എനിക്ക് വ്യത്യസ്ത പ്രതികരണം നൽകും അതിനാൽ എന്താണ് ചെയ്യുന്നത് എന്നാൽ ഈ ഒരു ചാലഞ്ച് എനിക്ക് 1 ബിറ്റ് പ്രതികരണം നൽകുന്നു ഒന്നിലധികം വ്യത്യസ്ത ചാലഞ്ച്കളുമായി യഥാർത്ഥത്തിൽ ഈ റിംഗ് ഓസിലേറ്റർ പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ നമ്മൾക്കു വലിയ ഔട്ട്പുട്ട് പ്രതികരണം സൃഷ്ടിക്കാൻ കഴിയും ഉദാഹരണത്തിന് ഞാൻ നിരന്തരം വ്യത്യസ്ത ചാലഞ്ച് കൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ എനിക്ക് പ്രതികരണങ്ങളുടെ ഒരു വലിയ സ്ട്രിംഗ് ലഭിക്കും ഓരോ പ്രതികരണവും മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും അതിനാൽ നമ്മൾ ഒരു ഉദാഹരണം എടുത്ത് റിംഗ് ഓസിലേറ്റർ PUF ന്റെ പ്രത്യേക സവിശേഷതകൾ പരിശോധിക്കുന്നു ഡിഎസി 2007 ൽ പ്രൊഫസർ ദേവദാസ് എഴുതിയ "Physical Unclonable Functions for Device Authentication and Secret Key Generation" എന്ന പ്രത്യേക പ്രബന്ധത്തെ ആണ് നമ്മൾ പരിഗണിക്കുന്നത് ഈ പേപ്പർ റിംഗ് ഓസിലേറ്റർ PUF വെർട്ടെക്സ് 4 FPGA നടപ്പിലാക്കുന്നത് കാണിക്കുന്നു അത്തരം 15 ഉപകരണങ്ങളെ അവർ താരതമ്യം ചെയ്തു ഈ ഉപകരണങ്ങളെല്ലാം സമാനമാണ് അവ ഓരോ എഫ്പിജിഎയിലും 1024 റിംഗ് ഓസിലേറ്ററുകൾ നടപ്പിലാക്കി ഇതിനർത്ഥം ഇവിടെ N 1024 ആയിരുന്നു എന്നാണ് കൂടാതെ 3 ഇൻവെർട്ടറുകൾക്ക് പകരം 5 ഇൻവെർട്ടറുകൾ ഉപയോഗിക്കുകയും ചെയ്തു ഓരോ റിംഗ് ഓസിലേറ്ററിനും 5 ഇൻവെർട്ടറുകളും ഒരു AND ഗേറ്റും ഉണ്ടായിരുന്നു ഈ പ്രത്യേക കണക്ക് ഇന്റർ ചിപ്പ് വ്യതിയാനം അല്ലെങ്കിൽ പിയുഎഫിന്റെ പ്രത്യേകത അല്ലെങ്കിൽ പിയുഎഫ് പ്രതികരണത്തിന്റെ പ്രത്യേകത കാണിക്കുന്നു തന്നിരിക്കുന്ന ഒരു ചാലഞ്ച് ഉപകരണം എ ഉപകരണം ബി എന്നിവയിലേക്ക് അയച്ചു അതേ ചാലഞ്ച് പ്രതികരണങ്ങൾ ശേഖരിക്കുകയും 2 പ്രതികരണങ്ങൾ തമ്മിലുള്ള ഹാമിങ് ദൂരം കണക്കാക്കുകയും ചെയ്യുന്നു ഈ പ്രത്യേക ഗ്രാഫ് 128 ബിറ്റുകൾക്കുള്ള പ്രതികരണം കാണിക്കുന്നു ഇപ്പോൾ ഒരു നല്ല പി എഫിന് ഇന്റർ ചിപ്പ് വ്യതിയാനം പരമാവധി ആയിരിക്കണം എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനർത്ഥം എ യുടെ പ്രതികരണം ബി യുടെ പ്രതികരണത്തിൽ നിന്ന് കഴിയുന്നത്ര വ്യത്യസ്തമായിരിക്കണം എന്നാണ് അതിനാൽ 128 ബിറ്റുകളുടെ ഓരോ പ്രതികരണവും പരിഗണിക്കുകയാണെങ്കിൽ എ ബി എന്നിവ തമ്മിൽ പരമാവധി വ്യത്യാസം ഉണ്ടാകുന്നതിന് എ ബി എന്നിവ 64 ബിറ്റുകളിൽ വ്യത്യാസപ്പെടണം നമ്മൾ ഇവിടെ കാണുന്നതുപോലെ എക്സ് ആക്സിസിൽ ഇത് എ ബി എന്നിവയ്ക്കിടയിലുള്ള ഹാമിംഗ് ദൂരം കാണിക്കുന്നു കൂടാതെ Y ആക്സിസ് probability കാണിക്കുന്നു ഈ തരംഗരൂപത്തിൽ ഹാമിംഗ് ദൂരം ശരാശരി 59 1 ആണെന്ന് നമുക്ക് കാണാം യഥാർത്ഥത്തിൽ അത് 64 ആയിരിക്കണം പക്ഷേ 59 1 വളരെ നല്ല ഹാമിംഗ് ദൂരമാണ് നമ്മൾക്കു ആവശ്യമുള്ള മറ്റൊരു പരിശോധന ഇൻട്രാ ചിപ്പ് വ്യതിയാനമാണ് മുമ്പത്തെ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ ഇൻട്രാ ചിപ്പ് വ്യതിയാനം ഒരു PUF ന്റെ പുനരുൽപാദനക്ഷമത അല്ലെങ്കിൽ കരുത്ത് കാണിക്കുന്നു നമ്മൾ സൂചിപ്പിച്ചതുപോലെ PUF ഉള്ള ഉപകരണത്തിന് അതേ ചാലഞ്ച് നൽകുന്നു തുടർന്നു പ്രതികരണം നേടുകയും മറ്റൊരു അവസ്ഥയിൽ ഒരു ദിവസത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു മാസത്തിന് അല്ലെങ്കിൽ ഒരു വർഷത്തിന് ശേഷം ഞങ്ങൾ അതേ ഉപകരണത്തിലേക്ക് അയച്ച് പ്രതികരണം നേടുകയും ചെയ്യുന്നു നമുക്ക് വ്യത്യസ്ത വശങ്ങളുണ്ടാകാം ഉദാഹരണത്തിന് ഒരു നിർദ്ദിഷ്ട താപനിലയിൽ അതായത് 20°C 1 2 V ൽ ഒരു ചാലഞ്ച് അയയ്ക്കുകയും പിന്നീട് അതേ ഉപകരണത്തിലേക്ക് 120°C 1 08 V ൽ മറ്റൊരു ചാലഞ്ച് ഉം അയക്കാം താപനില സമയം ഇൻപുട്ട് വോൾട്ടേജ് തുടങ്ങിയ പാരിസ്ഥിതിക അവസ്ഥകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരേ ചാലഞ്ച് നു പ്രതികരണം കഴിയുന്നത്ര അടുത്ത് ആയിരിക്കണം എന്നതാണ് ഒരു നല്ല PUF ൽ പ്രതീക്ഷിക്കുന്നത് ഈ പ്രത്യേക ഗ്രാഫ് ഇൻട്രാ ചിപ്പ് ഹാമിംഗ് ദൂരവ്യത്യാസത്തിന്റെ distribution കാണിക്കുന്നു ഈ 2 നിബന്ധനകൾക്ക് കീഴിൽ ഓരോ പ്രതികരണവും ഒരേ ചാലഞ്ച് നു എത്രമാത്രം വ്യത്യസ്തമാണെന്ന് ഇത് നിങ്ങളോട് പറയുന്നുഅതായത് 20° 1 2 വോൾട്ട് 120°1 08 വോൾട്ടിൽ ചലഞ്ച് നൽകിയപ്പോൾ മിക്ക സാഹചര്യങ്ങളിലും വ്യത്യസ്ത പാരിസ്ഥിതിക സാഹചര്യങ്ങളിൽ പ്രതികരണം മാറാതിരിക്കാനാണ് സാധ്യത യഥാർത്ഥത്തിൽ റിപ്പോർട്ടുചെയ്ത PUF പ്രതികരണങ്ങളുടെ 128 ബിറ്റുകളിൽ ശരാശരി 0 61 ബിറ്റ് വ്യത്യാസം ഉണ്ട് നമ്മൾ ഇപ്പോൾ വ്യത്യസ്ത തരം PUF നെ കുറിച്ച് നോക്കും ഇതിനെ ആർബിറ്റർ പി എഫ് എന്ന് വിളിക്കുന്നു പ്രധാനമായും നമ്മൾ കണ്ട റിംഗ് ഓസിലേറ്റർ പി എഫുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇതിന് ചില വ്യത്യസ്ത ഗുണങ്ങളുണ്ട് അടിസ്ഥാനപരമായി ആർബിറ്റർ PUF ഒരു സ്വിച്ച് അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇതിന് 2 മൾട്ടിപ്ലക്സറുകൾ ഉണ്ട് അത് സ്വിച്ചിൽ ഉപയോഗിക്കുന്നു നിങ്ങൾ ഈ നിർദ്ദിഷ്ട ഡയഗ്രം പരിഗണിക്കുകയാണെങ്കിൽ രണ്ടിനും ഇവിടെ ഒരേ ഇൻപുട്ട് 0 നൽകുകയും അതേ 0 ഇതുമായും ബന്ധിപ്പിച്ചിരിക്കുന്നു ഈ മൾട്ടിപ്ലക്സറുകൾ ഓരോന്നും ചെയ്യുന്നത് 0 അല്ലെങ്കിൽ 1 ഇൻപുട്ടിനെ അടിസ്ഥാനമാക്കി അനുബന്ധ ഇൻപുട്ടിനെ ഔട്ട്പുട്ടിലേക്ക് മാറ്റും ഉദാഹരണത്തിന് മൾട്ടിപ്ലക്സർ സെലക്ട് ലൈൻ 0 ആണെങ്കിൽ മൾട്ടിപ്ലക്സറുകളിലെ ഈ ഇൻപുട്ട് ഔട്ട്പുട്ടിലേക്ക് അയയ്ക്കും മറുവശത്ത് മൾട്ടിപ്ലക്സറിന്റെ സെലക്ട് ലൈൻ 1 ആയി സജ്ജമാക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ഇൻപുട്ടിലുള്ള ഇൻപുട്ട് ഔട്ട്പുട്ടിൽ സ്വിച്ചുചെയ്യും ഒരു ആർബിറ്റർ സ്വിച്ചിൽ രണ്ട് മൾട്ടിപ്ലക്സറുകൾ ഉപയോഗിക്കുന്നു ഒരേ ഇൻപുട്ട് നിലവിലുള്ള രണ്ട് മൾട്ടിപ്ലക്സറുകളിലേക്ക് മാറുന്നു കൂടാതെ രണ്ട് മൾട്ടിപ്ലക്സറുകൾക്കും ഒരേ സെലക്ട് ലൈനുണ്ട് ഈ 2 മൾട്ടിപ്ലക്സറുകൾക്കിടയിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട് ഇൻപുട്ട് ലൈൻ യഥാർത്ഥത്തിൽ ഓരോ മൾട്ടിപ്ലക്സറിലും വ്യത്യസ്തമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഉദാഹരണത്തിന് നീല വര ഈ മൾട്ടിപ്ലക്സറിലെ 0 ലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ സെലക്ട് ലൈൻ 0 ആയിരിക്കുമ്പോൾ അത് ഔട്ട്പുട്ടിലേക്ക് മാറും ഈ സാഹചര്യത്തിൽ ഇവിടെ നീല വര 1 ലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു അതുപോലെഈ കേസിൽ ചുവന്ന വര 1 ഉം 0 ഈ പ്രത്യേക മൾട്ടിപ്ലക്സറിൽ ഉം ആയി ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ സെലക്ട് ലൈൻ 0 ആകുമ്പോൾ ഈ ചുവന്ന വരയാണ് മാറുന്നത് സ്വിച്ചിന്റെ ഈ പ്രത്യേക കോൺഫിഗറേഷനിൽ ഔട്ട്പുട്ട് സെലക്ട് ലൈനിനെ ആശ്രയിച്ചിരിക്കും സെലക്ട് ലൈൻ 0 ആണെങ്കിൽ നമുക്ക് മുകളിൽ നീല വരയും താഴെ ചുവന്ന വരയും ആയിരിക്കും മറുവശത്ത് സെലക്ട് ലൈൻ 1 ആണെങ്കിൽ അത് മുകളിലേക്ക് പോകുന്ന ചുവന്ന വരയും താഴെ നീല വരയുമാണ് അടിസ്ഥാനപരമായി ഇത് അർത്ഥമാക്കുന്നത് സെലക്ട് ലൈനിനെ ആശ്രയിച്ച് നമ്മൾ നീല വരയോ ചുവന്ന വരയോ മൾട്ടിപ്ലക്സർ ഔട്ട്പുട്ടിലേക്ക് അയയ്ക്കുന്നു എന്നതാണ് ആർബിറ്റർ സ്വിച്ച് എന്ന് വിളിക്കുന്ന ഈ പ്രത്യേക ഘടകം ആർബിറ്റർ PUF നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നു ഇപ്പോൾ ഈ സ്വിച്ചിന്റെ അടിസ്ഥാന സവിശേഷത ഈ ഔട്ട്പുട്ടുകൾ അതായത് നീല മുകളിലാണോ അല്ലെങ്കിൽ ചുവപ്പ് മുകളിലാണോ എന്നത് ഈ PUF കളുടെ സവിശേഷതകളെ ആശ്രയിച്ചിരിക്കുന്നു എന്നതാണ് ഒരു ആർബിറ്റർ PUF നിർമ്മിക്കുന്നതിന് ഈ അടിസ്ഥാന ആർബിറ്റർ സ്വിച്ച് ഉപയോഗിക്കുന്നു ഒരു സാധാരണ ആർബിറ്റർ PUF ഇതുപോലെയാണ് കാണപ്പെടുന്നത് മുമ്പത്തെ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നതുപോലെ അത്തരം സ്വിച്ചുകൾ ഒന്നിനുപുറകെ ഒന്നായി അവതരിപ്പിക്കുന്നു ഓരോ സ്വിച്ചിലേക്കും ഒരേ ഇൻപുട്ട് നൽകുന്നു ഇവിടെ ചലഞ്ച് 0 അല്ലെങ്കിൽ 1 ആണ് പ്രധാനമായും ചലഞ്ച് ചെയ്യുന്നത് നീല വരയോ ചുവന്ന വരയോ യഥാക്രമം മുകളിലോ താഴെയോ എന്ന് തീരുമാനിക്കുന്നു എന്നതാണ് ഉദാഹരണത്തിന് ഈ പ്രത്യേക സ്വിച്ചിനായി 0 ഇട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുക അതിനാൽ ഇത് നീല വരയെ താഴേക്കും ചുവപ്പ് വരയെ മുകളിലേക്കും മാറ്റുന്നു അത്തരം സ്വിച്ചുകളുടെ ഒരു ശ്രേണിക്ക് ശേഷം ഒടുവിൽ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട് ഇതൊരു ഡി ഫ്ലിപ്പ് ഫ്ലോപ്പാണ് ഈ പ്രത്യേക ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് 1 അല്ലെങ്കിൽ 0 ഔട്ട്പുട്ട് നൽകുന്നു ഈ രൂപകൽപ്പന ഒരു പിയുഎഫ് ആയി ഉപയോഗിക്കുന്നതിന് രണ്ട് വശങ്ങളുണ്ട് ഒന്നാമത്തേത് ഈ സ്വിച്ചുകളുടെ രൂപകൽപ്പനയിലെ നാനോ സ്കെയിൽ വ്യതിയാനങ്ങൾ കാരണം സിഗ്നലുകൾ ഈ സ്വിച്ചുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ 2 വരികളും അതായത് ചുവപ്പും നീലയും വ്യത്യസ്ത പ്രക്ഷേപണ വേഗത കൈവരിക്കും റിംഗ് ഓസിലേറ്ററിലെ പോലെ തന്നെ ഈ മൾട്ടിപ്ലക്സറുകൾ നൽകുന്ന കാലതാമസം സിലിക്കണിന്റെ ഉൽപാദന പ്രക്രിയകളെയും വിവിധ ആന്തരിക സവിശേഷതകളെയും ആശ്രയിച്ചിരിക്കും തൽഫലമായി അത്തരം നിരവധി സ്വിച്ചുകളിലൂടെ കാസ്കേഡു ചെയ്തതിനുശേഷം ഈ വരികളിലൊന്നിൽ നീല അല്ലെങ്കിൽ റെഡ് ലൈൻ മറ്റ് ലൈനിനേക്കാൾ വേഗത്തിൽ ഔട്ട്പുട്ടിൽ എത്തും എന്നതാണ് ഇപ്പോൾ ഇവിടെ ഒരു ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട് ഇത് ഈ 2 വരികളിൽ ഏതാണ് വാസ്തവത്തിൽ വേഗതയുള്ളതെന്നു കണ്ടുപിടിച്ചു അതിനനുസരിച്ച് 0 അല്ലെങ്കിൽ 1 ഔട്ട്പുട്ട് നൽകുന്നു ഈ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഈ 2 സിഗ്നലുകളിൽ ഏതാണ് വേഗതയേറിയത് എന്ന് യഥാർത്ഥത്തിൽ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും എന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ നോക്കാം നമുക്ക് ഒരു ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് പരിഗണിക്കാം വരികളിലൊന്ന് അതായത് നീല വരയെ ഡി ഇൻപുട്ടിലേക്ക് ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും റെഡ് ലൈൻ ക്ലോക്ക് ഇൻപുട്ടിലേക്ക് ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും ഔട്ട്പുട്ട് 0 അല്ലെങ്കിൽ 1 ആയ ഒരു ബിറ്റ് ആണെന്നും പറയാം ഇപ്പോൾ ബന്ധിപ്പിച്ചിരിക്കുന്ന നീല വര ഡി ഇൻപുട്ടിലേക്ക് ആദ്യം എത്തുന്നു തൽഫലമായി നമുക്ക് ഇതുപോലെയുള്ള എന്തെങ്കിലും ലഭിക്കും നമ്മൾക്കു ആദ്യം ഡി ലൈൻ എത്തുംപിന്നീട് ക്ലോക്ക് സിഗ്നൽ എത്തുന്നു ഒരു ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നമുക്കറിയാം ക്ലോക്ക് 0 മുതൽ 1 വരെ മാറുമ്പോൾ ഡിയിലെ ഇൻപുട്ട് അപ്പോൾ ഔട്ട്പുട്ടിൽ ചേർത്തു ക്ലോക്ക് 0 മുതൽ 1 വരെ മാറുമ്പോൾ ഡി ലൈനിലെ സിഗ്നൽ ആദ്യം എത്തിയിരിക്കുന്നതിനാൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും മറുവശത്ത് ക്ലോക്ക് 0 മുതൽ 1 വരെ പരിവർത്തനം ചെയ്യുമ്പോൾ വാസ്തവത്തിൽ ക്ലോക്ക് ഒന്നാം സ്ഥാനത്തെത്തിയിട്ടുണ്ടെങ്കിൽ ഡി ഇപ്പോഴും 0 ആയിരിക്കും അതിനാൽ ഔട്ട്പുട്ട് Q 0 ആയിരിക്കും ഒരു rising edge അതായത് 0 ൽ നിന്ന് 1 ലേക്ക് വിവിധ സ്വിച്ചുകളിലൂടെ പരിവർത്തനം ചെയ്യുന്നത് ഈ 2 വരികൾക്കും ഒരു വ്യത്യസ്ത പാതയ്ക്ക് കാരണമാകും തൽഫലമായിഈ പ്രത്യേക ഘട്ടത്തിൽ ഔട്ട്പുട്ടിൽ ഒരു പാത മറ്റൊന്നിനേക്കാൾ വേഗതയുള്ളതാണ് നമ്മൾ കണ്ടതുപോലെ ഈ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഈ 2 പാതകളിൽ ഏതാണ് ഒന്നാമതെത്തിയതെന്ന് തിരിച്ചറിയാൻ കഴിയും അതിനനുസരിച്ച് ഔട്ട്പുട്ട് 0 നും 1 നും ഇടയിൽ മാറാൻ കഴിയും മൾട്ടിപ്ലക്സറുകളുടെ സെലക്ട് ലൈൻ ആണ് ആർബിറ്റർ PUF ലെ വെല്ലുവിളി ഉദാഹരണത്തിന് 3 സ്വിച്ചുകൾ ഉണ്ടെന്ന് വിചാരിക്കുക ചാലഞ്ച് 0 0 1 എന്നിവയാണ് നമ്മൾ ചാലഞ്ച് മാറ്റുകയാണെങ്കിൽ അത് പ്രധാനമായും ചുവപ്പ് നീല സിഗ്നലുകളുടെ പാതയെ മാറ്റുന്നു അത് ഔട്ട്പുട്ട് മാറാൻ കാരണമാവാം പാത്ത് വ്യത്യസ്തമായതിനാൽ ഈ 2 സിഗ്നലുകളിൽ ഏതാണ് വേഗതയേറിയതെന്ന് തിരഞ്ഞെടുക്കുന്നതും വ്യത്യസ്തമായിരിക്കും അതിനാൽ PUF ന്റെ ഔട്ട്പുട്ടും മാറാം അതിനാൽ ഒരു ആർബിറ്റർ PUF സൃഷ്ടിക്കുന്നതിന് ഒരു ചാലഞ്ച് നല്കുകയും ഔട്ട്പുട്ട് 0 ഉം 1 ഉം ആണെന്ന് നിർണ്ണയിക്കുകയും വേണം ഈ അതുല്യത ലഭിക്കുന്നത് കാരണം ഒരു പ്രത്യേക ചാലഞ്ച് നു ഈ പാതകൾ ഓരോ ഉപകരണത്തിനും വ്യത്യസ്തമായിരിക്കും അതിനാൽ ഒരു ഉപകരണത്തിൽ ഒരേ ആർബിറ്റർ PUF സമാന ചാലഞ്ച് നു ഒരുപക്ഷേ 0 ഔട്ട്പുട്ട് നൽകും മറ്റ് ഉപകരണങ്ങളിൽ ഇത് 1 ഔട്ട്പുട്ട് നൽകും ഇത് authentication നും മറ്റ് ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നു ഇത് ഒരു ആർബിറ്റർ PUF ന്റെ റിസൾട്ട് ആണ് 2008 ൽ പ്രസിദ്ധീകരിച്ച ഈ പ്രത്യേക പേപ്പറിൽ നിന്നാണ് ഇത് ലഭിക്കുന്നത് ഇതിൽ ഇന്റർ ഇൻട്രാ ചിപ്പ് ദൂരം രണ്ട് താപനിലയിൽ കാണിക്കുന്നു ഒന്ന് 25° ഉം മറ്റൊന്ന് 85° ഉം ആണ് ഈ റിസൾട്ട് റിംഗ് ഓസിലേറ്റർ PUF ന് സമാനമാണ് ഒരേ ചാലഞ്ച് നുള്ള ഇന്റർ ചിപ്പ് ദൂരം 128 ബിറ്റ് പ്രതികരണത്തിന് ശരാശരി 64 ആണെന്ന് കാണുന്നു ഇതിനർത്ഥം 2 വ്യത്യസ്ത ആർബിറ്റർ പിയുഎഫുകൾക്ക് ഞാൻ ഒരേ വെല്ലുവിളി നൽകുകയാണെങ്കിൽ പ്രതികരണം ഏകദേശം 64 ബിറ്റുകൾ വ്യത്യാസപ്പെടും അതുപോലെ ഇൻട്രാ ചിപ്പ് ദൂരം 128 ബിറ്റ് പ്രതികരണത്തിന് 16 ൽ താഴെയാണ് ഈ രണ്ട് സാഹചര്യങ്ങളിലും താപനില പ്രതികരണത്തെ വളരെയധികം ബാധിക്കുന്നില്ല ഇതിന്റെ അർത്ഥമെന്തെന്നാൽ ഒരേ ഉപകരണത്തിന് വ്യത്യസ്ത വ്യവസ്ഥകളോടെ ഞാൻ ഒരേ ചാലഞ്ച് നൽകിയാൽ സമയം മാറുക താപനില മാറുക അല്ലെങ്കിൽ വളരെക്കാലത്തിനുശേഷം വീണ്ടും കൊടുക്കുക എന്നിങ്ങനെയുള്ളവ എങ്കിലും പ്രതികരണം വളരെ സമാനമാണ് 2 PUF കൾ നമ്മൾ കണ്ടു റിംഗ് ഓസിലേറ്റർ PUF ആർബിറ്റർ PUF ഇപ്പോൾ അവയിൽ 2 എണ്ണം താരതമ്യം ചെയ്ത് രണ്ടിന്റെ സവിശേഷതകൾ എന്താണെന്ന് നോക്കാം ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം റിംഗ് ഓസിലേറ്റർ പി എഫിൽ ഈ 2 മൾട്ടിപ്ലെക്സർ ഉം N ബിറ്റ് ചലഞ്ചും ഉണ്ട് N ബിറ്റ് ചലഞ്ച് ഒരു ജോഡി റിംഗ് ഓസിലേറ്ററുകളാണ് തിരഞ്ഞെടുക്കുന്നത് സാധ്യമായ ചാലഞ്ച് കളുടെ എണ്ണം N chose 2 ആണ് മറുവശത്ത് ഒരു ചാലഞ്ച് തിരഞ്ഞെടുക്കാൻ ആർബിറ്റർ പി എഫ് സെലക്ട് ലൈൻ ഉപയോഗിക്കുന്നു അവിടെ N സ്വിച്ച് ഉണ്ടെങ്കിൽ സാധ്യമായ ചാലഞ്ച് കളുടെ എണ്ണം 2N ആണ് അതിനാൽ ആർബിറ്റർ പിയുഎഫിന് സാധ്യമായ വെല്ലുവിളികളുടെ എണ്ണം 2N ആണ് ചാലഞ്ച് കളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കി ഈ പിയുഎഫുകളെ ദുർബലമായ പിയുഎഫ് ആയി തരംതിരിക്കുന്നു കാരണം ഇതിന് വളരെ ചെറിയ എണ്ണം വെല്ലുവിളികളാണ് ഉള്ളത് വാസ്തവത്തിൽ ഈ ചാലഞ്ച്കൾ റിംഗ് ഓസിലേറ്ററുകളുടെ എണ്ണത്തെ ആശ്രയിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ശക്തമായ PUF കാരണം സാധ്യമായ വെല്ലുവിളികളുടെ എണ്ണം നിലവിലുള്ള ആർബിറ്റർ സ്വിച്ചുകളുടെ എണ്ണവുമായി ഗണ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു ദുർബലമായ PUF കളുടെ സവിശേഷതകളാണ് ഇവ ഒന്നാമതായി ദുർബലമായ PUF കൾക്ക് വളരെ നല്ല ഇന്റർ ഇൻട്രാ interintra വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് റിംഗ് ഓസിലേറ്ററിൽ നമ്മൾ കണ്ടതുപോലെ ചലഞ്ച് റെസ്പോൺസ് ജോഡികൾ താരതമ്യേന കുറവാണ് ഇക്കാരണത്താൽ CRP കൾ ചലഞ്ച് റെസ്പോൺസ് ജോഡികൾ രഹസ്യമായി സൂക്ഷിക്കേണ്ടതുണ്ട് മാത്രമല്ല ആക്രമണകാരിയോട് വെളിപ്പെടുത്താൻ കഴിയില്ല കാരണം അത്തരം CRP കളുടെ എണ്ണം വളരെ കുറവാണ് അടിസ്ഥാനപരമായി ക്രിപ്റ്റോഗ്രാഫിക് കീകൾ സൃഷ്ടിക്കുന്നതിന് ദുർബലമായ PUF കൾ ഉപയോഗിക്കുന്നു അവ സാധാരണയായി സ്വയം ഉപയോഗിക്കാറില്ല സിആർപി മറയ്ക്കുന്നതിന് സാധാരണ ക്രിപ്റ്റോഗ്രാഫിക് സ്കീമുകളായ എൻക്രിപ്ഷൻ അല്ലെങ്കിൽ എച്ച്എംഎസി എന്നിവയുമായി സംയോജിപ്പിച്ച് ഉപയോഗിക്കുന്നു അതിനാൽ ദുർബലമായ PUF ന്റെ പ്രശ്നം വ്യത്യസ്ത ചാലഞ്ച്കളുടെ എണ്ണം പരിമിതപ്പെടുത്തിയിരിക്കുന്നതിനാൽ ആക്രമണകാരിക്ക് ഈ വെല്ലുവിളികളെല്ലാം കണക്കാക്കാൻ കഴിയും മാത്രമല്ല ഓരോ ഉപകരണത്തിനും ആക്രമണകാരിക്ക് എല്ലാ ചലഞ്ച് പ്രതികരണ ജോഡികളുടെയും ഒരു ഡാറ്റാബേസ് സൃഷ്ടിക്കാൻ കഴിയും അതിനാൽ ഉപകരണം കൂടാതെ ആക്രമണകാരിക്ക് ഏതൊരു ചാലഞ്ച് നും തന്റെ ഡാറ്റാബേസിൽ നിന്ന് ഒരു പ്രതികരണം നൽകാൻ കഴിയും അതിനാൽ ദുർബലമായ PUF കൾക്ക് പരിമിതമായ ആപ്ലിക്കേഷനുകൾ മാത്രമേ ഉള്ളു ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ ശക്തമായ PUF കൾക്ക് ധാരാളം ചലഞ്ച് പ്രതികരണ ജോഡികളുണ്ട് വാസ്തവത്തിൽ ആർബിറ്റർ PUF ൽ നിലവിലുള്ള ആർബിറ്റർ സ്വിച്ചുകളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കി എക്സ്പോണൻഷ്യൽ ചലഞ്ച് റെസ്പോൺസ് ജോഡികളുണ്ടെന്ന് നമ്മൾ കണ്ടു ഇതുമൂലം ആക്രമണകാരിക്ക് എല്ലാ ചലഞ്ച് റെസ്പോൺസ് ജോഡികളും പിടിച്ചെടുക്കാനോ ഈ ചലഞ്ച് റെസ്പോൺസ് ജോഡികളുടെ ഒരു ഡാറ്റാബേസ് നിർമ്മിക്കാനോ കഴിയില്ലെന്നും അനുമാനിക്കാം അതിനാൽ ഉപയോഗിച്ച ചലഞ്ച് പ്രതികരണ ജോഡികൾ പരസ്യമാക്കാം സാധാരണയായി ശക്തമായ PUF ന് ക്രിപ്റ്റോഗ്രാഫിക് സ്കീം ആവശ്യമില്ല കാരണം രഹസ്യമായി ഒന്നും സംഭരിക്കേണ്ടതില്ല ഇതുപയോഗിച്ച് നമ്മൾ ഈ ക്ലാസ് നിർത്തും പിയുഎഫിന്റെ മൂന്നാം ഭാഗമായ അടുത്ത ക്ലാസ്സിൽ ക്രിപ്റ്റോഗ്രഫി അല്ലെങ്കിൽ രഹസ്യ കീകളുടെ ആവശ്യമില്ലാതെ ആധികാരികത ഉറപ്പാക്കാൻ ഈ പിയുഎഫുകൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം ഇതുകാരണം നിരവധി ബലഹീനതകൾ എങ്ങനെ ഉണ്ടാകുമെന്നും ഈ പ്രശ്നങ്ങൾ ലഘൂകരിക്കാനുള്ള വഴികളും നമ്മൾ കാണും നന്ദി